റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലെ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ചിരുന്നു കൂടാതെ ടാസ്ക് ഷെഡ്യൂളിംഗ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു പ്രധാന പ്രശ്നമാണെന്ന് ഞങ്ങൾ ചർച്ചചെയ്തു കാരണം അനുയോജ്യമായ ടാസ്ക് ഷെഡ്യൂളറുടെ സഹായത്തോടെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻസ് പാലിക്കുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്ന ചില ഷെഡ്യൂളറുകളിലേക്ക് നമുക്ക് നോകാം നമുക്ക് ഏറ്റവും ലളിതമായ ഷെഡ്യൂളറിൽ ആരംഭികാം ഇത് സൈക്ലിക് എക്സിക്യൂട്ടീവുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഏറ്റവും ലളിതമായ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് സൈക്ലിക് എക്സിക്യൂട്ടീവുകൾ വളരെ ലളിതമായ എംബഡ് ചെയ്ത ആപ്ലിക്കേഷനുകളിലാണ് ഇവ പ്രവർത്തിക്കുന്നത് അവിടെ കടുത്ത നിയന്ത്രണമുണ്ട് കൂടാതെ പ്രോസസർ 4 ബിറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ് പ്രോസസ്സറും മെമ്മറി വളരെ കുറവാണ് ഈ സാഹചര്യത്തിൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ പ്രയാസമാണ് ടാസ്ക്കുകൾ ഇവിടെ ലളിതവും പീരിയോഡിക് സ്വഭാവവുമാണ് ഈ റിയൽ ടൈം സൈക്ലിക് എക്സിക്യൂട്ടീവുകൾ അടിസ്ഥാനപരമായി വളരെ ചെറിയ പ്രോഗ്രാമുകളാണ് ഒരു സൈക്ലിക് എക്സിക്യൂട്ടീവിന്റെ അടിസ്ഥാന ഘടന ചുവടെ ചേർക്കുന്നു തുടക്കത്തിൽ സിസ്റ്റം ആരംഭിക്കുന്നതിന് വിവിധ പാരാമീറ്ററുകൾ സജ്ജമാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം ഓർഗനൈസേഷനോടെയാണ് ഇത് ആരംഭിക്കുന്നത് തുടർന്ന് ടൈമർ ഇന്ററപ്റ്റ് നൽകുന്ന ഒരു പീരിയോഡിക് ടൈമർ ഉണ്ട് ഇത് ഒരു പ്രോഗ്രാമിലേക്ക് ഒരു കോൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സൈക്ലിക് എക്സിക്യൂട്ടീവ് ആണ് തുടക്കത്തിൽ ഒരു ഡാറ്റ ഇൻപുട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഡാറ്റ ഔട്ട്പുട്ട് എന്നിവയാണ് ഉള്ളത് തുടർന്ന് അടുത്ത കാലയളവ് വരുന്നതുവരെ ഇത് കാത്തിരിക്കുന്നു ഇതാണ് ഏറ്റവും ലളിതമായ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് അടിസ്ഥാനപരമായി ഒരു ചെറിയ പ്രോഗ്രാം ആണ് അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണം ഡാറ്റ ഇൻപുട്ട് ആണ് ഒരു താപനില കൺട്രോളർ ഉണ്ടെന്ന് കരുതുക തുടക്കത്തിൽ താപനില കൺട്രോളറിൽ താപനില സെൻസറിൽ നിന്ന് വായിക്കേണ്ടതുണ്ടെന്നും ഇത് ഡാറ്റാ ഇൻപുട്ടാണെന്നും കരുതുക അത് ഒരു പരിധിക്ക് താഴെയാണോ ഒരു പരിധിയേക്കാൾ ഉയർന്നതാണോ അതോ അസാധാരണമായ തുടങ്ങിയവയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിലവിലെ താപനില വായന ഒരു ഡിസ്പ്ലേയിൽ കാണിക്ക്കുന്നു അതാണ് ഡാറ്റാ ഔട്ട്പുട്ട് തുടർന്ന് അടുത്ത ഇന്റര്പ്തിനായി നമ്മൾ കാത്തിരിക്കുന്നു കൂടാതെ സൈക്ലിക് എക്സിക്യൂട്ടീവ് അനന്തമായി ഇവിടെ ലൂപ്പ് ചെയ്യുന്നത് തുടരുന്നു ഓരോ തവണയും ചില ലളിതമായ പ്രോസസ്സിംഗ് ഇന്റര്പ്തിനായി കാത്തിരിക്കുന്നു ഏറ്റവും പ്രാഥമിക എംബെഡ്ഡ്ഡ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ലളിതമായ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത് ഈ സൈക്ലിക് എക്സിക്യൂട്ടീവുകളിൽ പ്രോസസ്സറുകളൊന്നുമില്ല ഇത് അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ഉൾപ്പെടുന്നു ഒരു പ്രോഗ്രാം തുടക്കത്തിൽ ചില സെൻസറുകളുടെ സാമ്പിൾ ചെയ്യുന്നു കുറച്ച് പ്രോസസ്സിംഗ് നടത്തുന്നു തുടർന്ന് കുറച്ച് ഡിസ്പ്ലേ വിളിക്കുന്നു ഇവിടെ ഈ പ്രോഗ്രാം നിരവധി തവണ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു ഓരോ തവണയും ഒരു ഇന്റെര്പ്ട് ഉണ്ടാകുമ്പോൾ ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നു ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടീവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്യാധുനികമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ കൂടുതൽ ഉദാഹരണങ്ങൾ നോകാം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഷെഡ്യൂളറുകളെല്ലാം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഏറ്റവും ലളിതമായ അറ്റത്താണ് ഇവയെ ക്ലോക്ക് ഡ്രെവൻ ഷെഡ്യൂളറുകൾ എന്ന് വിളിക്കുന്നു ഇവന്റ് ഡ്രെവൻ ഷെഡ്യൂളറുകളാണ് കൂടുതൽ സങ്കീർണo റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂളറുകളിൽ രണ്ട് വിശാലമായ വിഭാഗങ്ങളുണ്ട് ഒന്ന് ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളും ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഏറ്റവും ലളിതമായ അറ്റത്ത് ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടീവുകളിൽ ആരംഭിക്കുന്ന ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ നമുക്കുണ്ട് ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് ഈ ക്ലോക്ക് ഡ്രൈവ്എൻ എല്ലാ ഷെഡ്യൂളറുകളിലും ക്ലോക്ക് ഇന്ററപ്റ്റ് ക്ലോക്കിന്റെ റൈസിംഗ് എഡ്ജിൽ കൃത്യമായ ഇടവേളകളിൽ വരുന്നു ക്ലോക്ക് ഇന്ററപ്റ്റുകൾ വരുന്നു ക്ലോക്ക് ഇന്ററപ്റ്റ് വന്നയുടൻ ഷെഡ്യൂളർ സജീവമാകും ക്ലോക്ക് ഇന്ററപ്റ്റ് പോയിന്റുകളെ ഷെഡ്യൂളിംഗ് പോയിന്റുകൾ എന്ന് വിളിക്കുന്നു നമ്മുടെ അവസാന ചർച്ചയിൽ ഷെഡ്യൂളർ സജീവമാവുകയും അടുത്തതായി എന്തുചെയ്യണമെന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന സംഭവത്തെ ഷെഡ്യൂളിംഗ് പോയിന്റുകൾ എന്ന് വിളിക്കുന്നു ഇവിടെ ഷെഡ്യൂളിംഗ് പോയിന്റുകൾ ഒരു ക്ലോക്ക് നിർവചിക്കുന്നു ക്ലോക്ക് ഡ്രൈവ്എൻ ചില പ്രധാന ഷെഡ്യൂളറുകൾ അടിസ്ഥാന സമയക്രമത്തിലുള്ള ഷെഡ്യൂളറുകളാണ് അവയെ അടിസ്ഥാന ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളർ എന്നും ടൈമർ ഡ്രൈവ്എൻ ഷെഡ്യൂളർ എന്നും മറ്റുചിലത് ഒരു സൈക്ലിക് ഷെഡ്യൂളർ എന്നും വിളിക്കുന്നു ഒരു ലളിതമായ റൌണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ക്ലോക്ക് ഇന്ററപ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു വ്യത്യസ്ത ജോലികൾ ഒരു റൌണ്ട് റോബിൻ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറിന്റെ ഒരു ഉദാഹരണമാണ് പക്ഷേ അത് പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്നുവെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്നാൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ലളിതമായ അറ്റത്താണ് ചെറിയ എംബെഡ്ഡ്ഡ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ലളിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും സൈക്ലിക് എക്സിക്യൂട്ടീവുകളും ഇപ്പോൾ കൂടുതൽ സങ്കീർണ്ണമായ ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അവിടെ ആദ്യം ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും തുടർന്ന് സൈക്ലിക് ഷെഡ്യൂളറിനെക്കുറിച്ച് ചർച്ച ചെയ്യും ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളെ ഓഫ്ലൈൻ ഷെഡ്യൂളറുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഷെഡ്യൂളറുകൾ എന്നും വിളിക്കുന്നു കാരണം കൈകാര്യം ചെയ്യാൻ സജ്ജമാക്കിയിരിക്കുന്ന ടാസ്ക്കുകൾ മുൻകൂട്ടി അറിയുന്നതിനാൽ ഇതിന് ഇടയ്ക്കിടെയുള്ള അപ്പെരിയോഡിക് ടാസ്ക്കുകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഒരു ടാസ്കിന്റെ ഘട്ടം എന്ന സങ്കൽപ്പത്തിൽ കാണുന്നത് പോലെ പീരിയഡ് മുൻകൂട്ടി അറിയുന്ന പീരിയോഡിക് ടാസ്കുകൾ മാത്രമേ എക്സിക്യൂഷൻ ടൈംഉം പീരിയഡ്ഉം വിവിധ ഘട്ടങ്ങളിൽ ആരംഭിക്കൂ ആദ്യം ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിലേക്കും പിന്നീട് സൈക്ലിക് ഷെഡ്യൂളറിലേക്കും നോക്കാം കാരണം ഇവ എംബെഡ് ചെയ്ത അപ്ലിക്കേഷനുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു കുറഞ്ഞ പ്രോസസ്സിംഗ് പവറും വളരെ ചെറിയ മെമ്മറിയും ഉള്ള കുറഞ്ഞ ചെലവിൽ എംബെഡ് ചെയ്ത ഹോസ്റ്റ് ചെയ്യാനാകാത്ത ഫുൾ ബ്ലൌണ്ഉം ഫുൾ ഫ്ലഡ്ജ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ആപ്ലിക്കേഷനുകളിലാണ് ഇവ ഉപയോഗിക്കുന്നത് അവർ വളരെ ചെറിയ കോഡ് സ്പേസും വളരെ കുറച്ച് സ്റ്റോറേജഉം ചെറിയ കോഡ് സൈസ് ആണ് ടെംപററി സ്റ്റോറേജ് ആവശ്യകത പോലും വളരെ ചെറുതാണ് എന്നതാണ് ഇതിന്റെ ഗുണം വളരെ കുറച്ച് മൈക്രോസെക്കൻഡിൽ പ്രവർത്തിക്കുന്ന വളരെ ചെറിയ പ്രോഗ്രാമുകളാണ് ഇവ കൂടാതെ റൺടൈം ഓവർഹെഡ് വളരെ കുറവാണ് പ്രോസസ്സിംഗ് പവർ ചെറുതായിരിക്കുമ്പോൾ ഒരു നൂതന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓവർഹെഡ് വളരെയധികം ആയിരിക്കും റിയൽ ടൈം ടാസ്ക്കുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് അതികം സമയവും അവശേഷിക്കുകയില്ല എന്നാൽ എംബെഡ്ഡ്ഡ് ആപ്ലിക്കേഷനിൽ കാര്യക്ഷമമായും കുറഞ്ഞ സ്പേസിലും പ്രവർത്തിക്കാനുള്ള അവസരം ഇവയ്ക്ക് ലഭിക്കും എന്നാൽ ഇവയുടെ പോരായ്മകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവയുടെ പ്രധാന പോരായ്മകൾ ഇവയെ അപെരിയോഡിക് സ്പോറാഡിക് ടാസ്കുകൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എന്നതാണ് ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അടിസ്ഥാന ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിൽ ഒരു ടേബിൾ സംഭരിക്കുന്നു ഈ ടേബിൾ അടിസ്ഥാനപരമായി ലളിതമായ രൂപത്തിലുള്ള രണ്ട് പാരാമീറ്ററുകൾ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ എന്താണ് ടാസ്ക്കുകൾ ഏത് സമയത്താണ് ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾ ടാസ്ക്കുകൾ വിളിക്കുമ്പോഴെല്ലാം ടാസ്ക്കുകൾ യഥാർത്ഥ ടാസ്ക്കുകളായിരിക്കില്ല ചില പ്രോഗ്രാമുകൾ ആവശ്യപ്പെടുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെയാകാം കാരണം ടാസ്ക്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് പാർട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സങ്കീർണ്ണത ആവശ്യമാണ് ടാസ്ക് ടേബിൾ സൃഷ്ടിക്കുന്ന ടാസ്കുകൾ ഒരു ടാസ്കിന്റെ അവസ്ഥ തുടങ്ങിയവയെല്ലാം ടാസ്ക് കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം സങ്കീർണതകൾ ആവശ്യമുണ്ട് കൂടാതെ നമ്മൾ ലളിതമായ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും ടാസ്ക് എന്ന പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചർച്ച ചെയ്യുന്നു ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു ടാസ്ക്കിന്റെ യഥാർത്ഥ അർത്ഥo ആകണമെന്നില്ല ഒരു പ്രോഗ്രാം ടാസ്ക് പ്രവർത്തിപ്പിക്കുന്നത് ഇവിടെ അടിസ്ഥാന ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിൽ നമുക്ക് വ്യത്യസ്ത ജോലികളും അവയുടെ പരമാവധി റൺടൈമും ഉണ്ട് തുടർന്ന് നമുക്ക് ഒരു ടൈമറിൽ നിന്ന് ഒരു പീരിയോഡിക് ഇന്ററപ്റ്റ് ഉണ്ട് കൂടാതെ ടൈമർ ഇന്ററപ്റ്റ് വരുമ്പോൾ ടൈമർ ഹാൻഡ്ലർ റൂട്ടീന് നടപ്പിലാക്കുന്നു ടൈമർ ഹാൻഡ്ലർ റൂട്ടീന് ഇപ്പോൾ പ്രവർത്തിക്കുന്നതും എൻട്രി നൽകിയതുമായ ടാസ്കിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്നു ഇത് ഷെഡ്യൂൾ ടേബിൾ നോക്കുകയും ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കണമെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഏതു പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ടാസ്കിന്റെ ചില പാരാമീറ്ററുകൾ പറയുന്നു ഇനി എക്സിക്യൂട്ട് ചെയേണ്ട എക്സിക്യൂട്ടബിള്ഇന്ടെ പേര് തുടർന്ന് ടേബിൾ അടുത്ത എൻട്രിയിലേക്ക് പോയിന്റുചെയ്യുന്നതിന് എൻട്രി ഓഗ്മെന്റ ചെയുകയും ഷെഡ്യൂൾ ടേബിൾ സൈസ്ഇന്ടെ മോഡ് ആകുന്നു കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അടുത്ത ടൈം നല്കുന്നതു ടേബിൾ എൻട്രി ടൈം നിന്നും ആണ് അതിനു കറന്റ് ടൈം കൂടെ ഇതിനായി ടാസ്കിനു ആവശ്യമായ ടൈം കൂടുന്നു ഇവിടെ ടൈമർ അടുത്ത തവണ സെറ്റ് ആക്കി അതാണ് ടാസ്ക് എടുക്കുന്ന സമയം കറന്റ് ടൈം മുതൽ ടാസ്ക് നിർവഹിക്കാൻ ആരംഭിച്ചു നിലവിലെ ടാസ്ക് നിർവ്വഹിക്കാൻ ആരംഭിക്കുന്ന ഒന്നാണിത് ടാസ്കിന്റെ പരമാവധി കാലയളവിനായി ടൈമർ സെറ്റ് ചെയുന്നു തുടർന്ന് ടൈമർ എക്സ്പയർ ആകുന്നു ടൈമർ ഹാൻഡ്ലർ ഇൻവോക് ചെയുകയും അടുത്ത ടാസ്ക് ടേബിൾ നിന്നും പോയിന്ററിലേക്ക് പുറത്തെടുക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ടേബിൾ ഇൻക്രെമെന്റ് ചെയുന്നു അടുത്തതായി ചെയ്യേണ്ട എൻട്രി ഇൻക്രെമെന്റ് ചെയുകയും തുടർന്ന് ടൈമറിനായി സമയം സെറ്റ് ചെയുകയും ടാസ്ക് നിർവ്വഹണത്തിനായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഒരു അടിസ്ഥാന ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലളിതമായ ഒരു ഡാറ്റാ സ്ട്രക്ടർ നമ്മുടെ പക്കലുണ്ട് അവയുടെ കോഡ് ചെറുതാണ് മാത്രമല്ല ഇത് ഈ ഷെഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇത് ലളിതമായ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്ന ഒരു നൂതന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടീവുകളേക്കാൾ അൽപ്പം സങ്കീർണ്ണമാണ് ഒരു ഷെഡ്യൂൾ ടേബിൾ ഉദാഹരണം ഇതാ ഇവ ടാസ്ക്കുകളോ റൺ ചെയാനുള്ള പ്രോഗ്രാമുകളോ ആണ് പരമാവധി എക്സിക്യൂഷൻ സമയം മില്ലിസെക്കൻഡിൽ സൂചിപ്പിക്കുകയും ടൈമർ സെറ്റ് ചെയുകയും ചെയുന്നു കൂടാതെ ടാസ്ക്കളുടെ സമയം മില്ലിസെക്കൻഡിലാണെന്ന് ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നു ടാസ്ക് എക്സിക്യൂഷൻ ടൈം 90 മില്ലിസെക്കൻഡും ഷെഡ്യൂളർ തന്നെ 100 മില്ലിസെക്കൻഡും എടുക്കുന്നുവെങ്കിൽ ഷെഡ്യൂളർ ഓവർഹെഡ് ടാസ്ക് എക്സിക്യൂഷൻ സമയത്തിനേക്കാൾ വളരെ ചെറുതായിരിക്കണം അത് നല്ല ആശയമല്ല ഇവിടെ സൈക്ലിക് ഷെഡ്യൂളറുകൾ ഒരു മില്ലിസെക്കൻഡിലോ അതിൽ കൂടുതലോ പ്രവർത്തിപ്പിക്കാൻ വളരെ കാര്യക്ഷമമാണ് തുടർന്ന് അവർ ടൈമർ സെറ്റ് ചെയുകയും ടേബിൾ ആക്സസ് ചെയുകയും തുടർന്ന് അവർ എക്സിക്യൂഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഒരു ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിൽ നമ്മൾ ടൈമർ വളരെയധികം തവണ സെറ്റ് ചെയുന്നു അതിനോടൊപ്പം ടൈമർ സെറ്റ് ചെയുനതു അത് റൺ ചെയാൻ എടുക്കുന്ന സമയവും അതിന്ടെ ഓവർഹെഡ് കണക്കിലെടുത്തല് ചിലവ് കൂടിയത് ആണ് ഇതു സെറ്റ് ചെയാൻ വേണ്ട പ്രധാന കംപോണന്റ്റു എൻട്രി കൌണ്ട് അതുപോലെ പോയിന്റർ ഇൻക്രെമെന്റ് ചെയുക തുടഗിയവ ആണ് ഇവയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നില്ല ടൈമർ സെറ്റ് ചെയുനതിനാണ് ധാരാളം സമയം എടുക്കുന്നത് അതിനാൽ ഈ ഓവർഹെഡ് പ്രധാനമാണ് അടുത്ത ഷെഡ്യൂളർ ലളിതമായ ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറിനേക്കാൾ അൽപ്പം സങ്കീർണ്ണമാണ് എന്നാൽ സൈക്ലിക് ഷെഡ്യൂളറിന്റെ ഒരു പ്രധാന നേട്ടം നമ്മൾ വീണ്ടും വീണ്ടും ഒരു ടൈമർ സെറ്റ് ചെയേണ്ടത് ഇല്ല എന്നതാണ് ടൈമർ ഒരു തവണ മാത്രമേ സെറ്റ് ചെയുന്നു അതുകൊണ്ട് ഇവിടെ ടൈമർ സെറ്റ് ചെയുന്ന ഓവർഹെഡ് വളരെ അതികം മറികടക്കാൻ സാധിക്കുന്നു നമുക്ക് സൈക്ലിക് ഷെഡ്യൂളർ ചർച്ച ചെയ്യാം എംബെഡ്ഡ്ഡ് ആപ്ലിക്കേഷനുകളിൽ സൈക്ലിക് ഷെഡ്യൂളറുകൾ വളരെ ജനപ്രിയമാണ് പൂർണ്ണമായ ഇവന്റ് ഡ്രൈവ്എൻ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നതിന് മതിയായ മെമ്മറിയും പ്രോസസ്സിംഗ് പവറും ഇല്ലാത്ത ലളിതമായ ആപ്ലിക്കേഷനുകൾക്കും ഇവ ഉദ്ദേശിച്ചുള്ളതാണ് ഉദാഹരണത്തിന് ഒരു മൈക്രോ കേർണൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പിന്നീട് കാണും ഒരു മൈക്രോ കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലും നിരവധി കിലോബൈറ്റ് മെമ്മറി എടുത്തേക്കാം ഓരോ തവണയും ഒരു ഷെഡ്യൂളിംഗ് പോയിന്റ് സംഭവിക്കുമ്പോൾ ആയിരക്കണക്കിന് കോഡ് വരികൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെ സൈക്ലിക് ഷെഡ്യൂളർ വളരെ ലളിതമാണ് ഷെഡ്യൂളിംഗിനായി ഒരു പുതിയ ടാസ്ക് ഏറ്റെടുക്കേണ്ട ഓരോ തവണയും ഇതിന് കുറച്ച് വരികൾ മാത്രമേ പ്രവർത്തിപ്പിക്കൂ സൈക്ലിക് ഷെഡ്യൂളറിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ നമ്മൾ ടാസ്ക്കുകൾ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇവ യഥാർത്ഥ ടാസ്ക്കുകൾ ആയിരിക്കില്ല കാരണം ഇവ ലളിതമായ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നു ടാസ്ക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവിടെ നമുക്കില്ല ഇവ യഥാർത്ഥത്തിൽ സ്റ്റോർ ചെയുനതു ലളിതമായ പ്രോഗ്രാമുകളാണ് കൂടാതെ ഷെഡ്യൂളർ ഈ പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാഹിത്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാസ്കിന്റെ യഥാർത്ഥ അർത്ഥത്തിലുള്ള ടാസ്കുകൾ അല്ല ഇവ എന്നാൽ വ്യത്യസ്ത ഷെഡ്യൂളറുകളിലുടനീളമുള്ള യൂണിഫോം ട്രീറ്റ്മെന്റ്നായി നമ്മൾ ടാസ്ക് എന്ന പദം ഉപയോഗിക്കുന്നു എന്നാൽ ഇവ യഥാർത്ഥ അർത്ഥത്തിൽ ചെയ്യുന്ന ജോലികളല്ലെന്ന് നാം ഓർക്കണം ഇവിടെ നമുക്ക് n പീരിയോഡിക് ടാസ്ക്കുകൾ ഉണ്ട് ഓരോ ടാസ്കും വ്യത്യസ്ത പീരിയഡ് പ്രവർത്തികുനു ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടീവിൽ ഒരു പീരിയഡ് മാത്രമേ ഉണ്ടാകു എന്നാൽ ഇവിടെ ഒന്നിലധികം പീരിയഡ് ഉണ്ട് അവയെ മൾട്ടി റേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നു മൾട്ടി റേറ്റിൽ നമുക്ക് ഒന്നിലധികം ടാസ്ക്കുകൾ ഉണ്ട് അവയ്ക്ക് വ്യത്യസ്ത പീരിയഡ് പ്രവർത്തിക്കേണ്ടതുണ്ട് ചിലതിനു ആവശ്യമായി വരുന്നത് 100 മില്ലിസെക്കൻഡ് ചിലത് 500 മില്ലിസെക്കൻഡ് ചിലത് 2000 മില്ലിസെക്കൻഡ് തുടങ്ങിയവ ആകാം ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളർ എന്നെന്നേക്കുമായി ആവർത്തിക്കുന്ന മറ്റ് സൈക്ലിക് ഷെഡ്യൂളറുകളുടെ കാര്യത്തിലെന്നപോലെ ഇവിടെ ഷെഡ്യൂൾ ഒരു ടേബിൾ സംഭരിച്ചിരിക്കുന്നു പക്ഷേ ഇത് ഒരു ടൈമർ വീണ്ടും വീണ്ടും സെറ്റ് ചെയുനതു മറികടക്കുന്നതായി നമുക്ക് കാണും പീരിയോഡിക് ടാസ്ക്കുകൾക്കായി ഒരു ഷെഡ്യൂൾ വികസിപ്പിക്കാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഓരോ ടാസ്കിനും വ്യത്യസ്ത ടൈം ഇന്റെർവൽസ് ഉണ്ടാകും അതായത് 100 അല്ലെങ്കിൽ 250 അല്ലെങ്കിൽ 300 മില്ലിസെക്കൻഡുകൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്നിട്ട് ഒരു ഷെഡ്യൂൾ സൃഷ്ടിച്ച് സ്റ്റോർ ചെയ്യണ്ട മാക്സിമം ലെങ്ത് എന്താണ് അതു ടേബിൾ സ്റ്റോർ ചെയുന്നു തുടർന്ന് നമ്മൾ അത് ആവര്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഉത്തരം LCM ആണ് ഇവിടെ നമ്മൾ എല്ലാ പിരീഡുകളും എടുക്കുകയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണക്കുകൂട്ടുകയും ചെയ്യുന്നു നമുക്ക് 100 300 400 ഉണ്ടെങ്കിൽ 1200 മില്ലിസെക്കൻഡ് പീരിയഡ് ഷെഡ്യൂൾ ഞങ്ങൾ സംഭരിക്കേണ്ടതുണ്ട് അതിനാൽ 100 300 400 LCM 1200 ആണ് അതിനാൽ നമ്മൾ 1200 മില്ലിസെക്കൻഡിനുള്ള ഷെഡ്യൂൾ നിലനിർത്തേണ്ടതുണ്ട് അത് ആവര്തിച്ചുകൊണ്ടേ ഇരിക്കുക ഇതു 1200 മില്ലിസെക്കൻഡ് അല്ലെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ പരിപാലിക്കേണ്ട പരമാവധി പീരിയഡ് ഒരു പ്രധാന സൈക്കിൾ എന്ന് വിളിക്കുന്നു കൂടാതെ ഓരോ പ്രധാന സൈക്കിളിനുശേഷവും ഞങ്ങൾ ഷെഡ്യൂൾ ആവർത്തിക്കുന്നു പ്രധാന സൈക്കിൾ പല ചെറിയ സൈക്കിൾസ് ആയിട്ടു വിഭജിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സൈക്കിൾസ് ഫ്രെയിമുകൾ എന്നും വിളിക്കുന്നു ഈ വരികൾ നമുക്ക് പടത്തിൽ കാണാനാകുന്നതുപോലെ അടിസ്ഥാനപരമായി ഇതു ക്ലോക്ക് ഇന്റെര്പ്ട് ആണ് മാത്രമല്ല ഫ്രെയിമുകളെ നിർവചിക്കുകയും ചെയ്യുന്നു ഇതാണ് പീരിയോഡിക് ടൈമർ ഇത് ഒരുതവണ മാത്രം സെറ്റ് ചെയ്താൽ മതി തുടർന്ന് ഈ ഇന്റർവെൽ ഫ്രെയിമുകളെ നിർവചിക്കുന്ന ഇന്റെര്പ്റ്സ് നൽകുന്നു ഓരോ ഫ്രെയിമിനും ഒരു ടാസ്ക് നിർണ്ണയിക്കപ്പെടുന്നു അത് ഒരു ടേബിൾ സൂക്ഷിക്കുകയും ഫ്രെയിമുകൾ ഫ്രെയിം ബൌണ്ടറിസ് ആരംഭിക്കുന്ന ഈ പോയിന്റുകൾ ഇവ ഷെഡ്യൂളിംഗ് പോയിന്റുകൾ സൈക്ലിക് ഷെഡ്യൂളർ ഈ ഷെഡ്യൂളിംഗ് പോയിന്റുകളിൽ സജീവമാവുകയും തുടർന്ന് ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഒരു പ്രധാന സൈക്കിളിനായി ടേബിൾ സ്റ്റോർ ചെയുകയും തുടർന്ന് ടാസ്ക് എക്സിക്യൂഷൻ ആവർത്തിക്കുകയും ചെയ്യുന്നു ഷെഡ്യൂളിംഗ് പോയിന്റുകൾ ഫ്രെയിമുകളുടെ ആരംഭത്തെ നിർവചിക്കുന്നു ഇവ ഒരു പീരിയോഡിക് ടൈമർ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്നു ഇത് കൃത്യമായ ഇടവേളകളിൽ ഇന്റെര്പ്ട് നൽകുന്നത് തുടരുന്നു ഓരോ തവണയും പീരിയോഡിക് ടൈമറിൽ നിന്ന് ഒരു ഇന്റെര്പ്ട് ഉണ്ടാകുമ്പോൾ സൈക്ലിക് ഷെഡ്യൂളർ സജീവമാക്കി അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു തുടർന്ന് ഷെഡ്യൂൾ ടേബിളിൽ കൂടിയാലോചിച്ച് അടുത്ത ടാസ്ക് പ്രവർത്തിപ്പിക്കാൻ കണ്ടെത്തുന്നു തുടർന്ന് അത് പൂർത്തിയാക്കിയ ശേഷം പീരിയോഡിക് ടൈമർ നിന്നുള്ള അടുത്ത ഇന്റെര്പ്ട് വരെ കുറച്ച് സമയം ഐഡിൽ ആയിരിക്കുന്നു ടൈമർ വീണ്ടും വീണ്ടും സെറ്റ് ചെയുന്നു ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ വളരെയധികം ഓവർഹെഡ് ആവശ്യമാണ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന്റെ ആരംഭത്തിൽ ഒരു തവണ മാത്രമേ പീരിയോഡിക് ടൈമർ ആരംഭിക്കൂ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം തന്നിരിക്കുന്ന ടാസ്ക് സെറ്റിനായി ഫ്രെയിം ടൈം എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നും ഫ്രെയിമുകളിലേക്ക് ടാസ്ക്കുകൾ എങ്ങനെയാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നതാണ് നിർദ്ദിഷ്ട ഫ്രെയിമുകളിലേക്ക് ടാസ്ക് ഇൻസ്റ്റൻസ് ആയ ടാസ്കുകൾ നിയോഗിക്കപ്പെടുന്നു കൂടാതെ ഈ ടാസ്ക്കുകൾക്ക് വ്യത്യസ്ത പീരിയഡ് ഉണ്ട് ഒരുപക്ഷേ ഒരു പ്രധാന ചക്രത്തിലോ ഹൈപ്പർ കാലഘട്ടത്തിലോ പ്രധാന ചക്രത്തെ ഹൈപ്പർ പിരീഡ് എന്നും വിളിക്കുന്നു ഒരുപക്ഷേ ഒരു ഹൈപ്പർ പിരീഡിൽ ചില ടാസ്ക് ഇൻസ്റ്റൻസ് അതായത് ജോലികൾ ഒന്നിലധികം തവണ പ്രവർത്തിക്കുന്നു ചില ജോലികൾ ഒരുതവണ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഫ്രെയിം ദൈർഘ്യം നിർണ്ണയിക്കാനും ഫ്രെയിമുകളിലേക്ക് ടാസ്ക്കുകൾ എങ്ങനെ നൽകാമെന്നും സൈക്ലിക് ഷെഡ്യൂളർമാരുടെ പ്രധാന ആശങ്കയാണ് എന്നാൽ നമ്മൾ ഉദാഹരണങ്ങൾ എടുക്കുകയും രീതിശാസ്ത്രം വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സെറ്റ് ടാസ്ക്കുകളും ടാസ്ക് പീരിയഡുകളും ഉപയോഗിച്ച് നമുക്ക് ഒരു ഫ്രെയിം സൈസ് കണ്ടെത്താനും ഫ്രെയിമുകൾക്ക് ടാസ്ക്കുകൾ നൽകാനും കഴിഞ്ഞേക്കില്ല അതിനുശേഷം നമ്മൾ ചില ടാസ്കുകൾ ചെറിയ ജോബ് അല്ലെങ്കിൽ ജോബ് സ്ലൈസുകളായി വിഭജിച്ച് രീതിശാസ്ത്രം വീണ്ടും ശ്രമിക്കേണ്ടതുണ്ട് അതിനാൽ ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടീവ് ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളർ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശ്രമിക്കുന്ന സിസ്റ്റം പ്രോഗ്രാമറിനായി ഇവിടെ ഒരു സൈക്ലിക് ഷെഡ്യൂളറിൽ ഒരു കൂട്ടം റിയൽ ടൈം ടാസ്ക്കുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഷെഡ്യൂളിന്റെ വികസനം തുച്ഛമല്ല കൂടാതെ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയുനത്തിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കും ഫ്രെയിം സമയം നിശ്ചയിക്കുന്നതിൽ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു ടാസ്ക് സെറ്റ് നൽകുക ഒരാൾ അത് ചെയ്യുന്നതെങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ചെയ്യും